എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ എൽ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ കാൺപൂർ ഐ ടിയിൽ നിന്നുള്ള രവിചന്ദ്രനാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ നിങ്ങളെ ഈ കോഴ്സ് പഠിപ്പിക്കുകയാണ് എന്തായാലും ആ ആഴ്ച എങ്ങനെയായിരുന്നു അതിനാൽ നിങ്ങൾ ക്വിസ് എഴുതുന്നത് ആസ്വദിച്ചോ നിങ്ങളിൽ ചിലർക്ക് 20 ൽ 20 ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതും നിങ്ങളുടെ ഉത്തരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നതിനായി പാഠങ്ങളിലേക്ക് മടങ്ങുന്നതും ആസ്വദിച്ചു ഇപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെയ്തതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടിവന്നു നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുന്നതാണ് ആദ്യത്തേത് എന്ന് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് മികവ് പുലർത്താനും നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം മൊത്തത്തിലുള്ള അർത്ഥത്തിൽ മൃദുവായ കഴിവുകളും വ്യക്തിത്വവും അതിലേക്ക് നമ്മൾ വിവിധ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു തുടർന്ന് ഞാൻ ചിന്തിച്ചു സോഫ്റ്റ് സ്കിൽസിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ ശരിക്കും പഠിപ്പിക്കണം ഇന്നത്തെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രധാന സാഹചര്യം സംഘർഷമാണ് അതിനാൽ ഈ ആഴ്ചയിൽ നമ്മൾ വളരെ രസകരവും വളരെ പ്രസക്തവുമായ ഒരു സോഫ്റ്റ് ഉപയോഗിച്ച് ആരംഭിക്കാൻ പോകുന്നു നൈപുണ്യം അതായത് സംഘർഷ പരിഹാര നൈപുണ്യം നാം നൽകേണ്ട ഒരു വിൻ വിൻ പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത് സംഘർഷ പരിഹാരത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഈ ആഴ്ച ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ചെയ്തതിന്റെ ഒരു ദ്രുത പുനരവലോകനം മാത്രം കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ ഡേവിഡ് മക്ലെലാൻഡിയുടെ 3 ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് അഫിലിയേഷൻ ആവശ്യം അധികാര ആവശ്യം എന്നിവയുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രചോദന ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നേട്ടത്തിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ആവശ്യത്തിൻ്റെ നേട്ടം അല്ലെങ്കിൽ എൻ ആച്ച് സ്വഭാവം മികവ് പുലർത്താനുള്ള ആഗ്രഹത്തെ ആവശ്യമുള്ള നേട്ട സ്വഭാവം എന്ന് വിളിക്കുന്നു പിന്നെ പിന്നീട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു കാലത്ത് ആളുകൾ ഇതിനെക്കുറിച്ച് വളരെയധികം ആശങ്കാകുലരായിരുന്നു ഫിസിക്കൽ ക്വോഷ്യന്റ് പിക്യു തുടർന്ന് ചിന്തയിൽ വന്ന ഒരു മാറ്റമുണ്ട് ഐക്യു അതിനുമപ്പുറം നമുക്ക് ഈ ഇക്യു ഉണ്ട് ഇന്ന് ആളുകൾ പറയുന്നത് സ്ക്വോത്തറ്റ് ഇല്ലാതെ ആണെന്നാണ് ആത്മീയ ഘടകമാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സമഗ്രമായ ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയ ഏത് വിജയവും നിലനിർത്താൻ കഴിയില്ല ഇപ്പോൾ ഈ ആത്മീയ ബുദ്ധി എന്താണെന്ന് വിശദീകരിക്കുന്നതിലേക്ക് ആത്മീയ മൂലധനം പദങ്ങൾ ദാന സോഹർ ഉപയോഗിച്ചവ ആത്മീയ മൂലധനത്തെക്കുറിച്ചുള്ള അവളുടെ പുസ്തകത്തെ ഞാൻ പരാമർശിക്കുന്നു തുടർന്ന് ഞാൻ നിങ്ങളുടെ ആത്മീയ മൂലധനം വികസിപ്പിക്കുന്നതിനോ കെട്ടിപ്പടുക്കുന്നതിനോ ഉള്ള 12 അടിവരയിടുന്ന തത്വങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യുക സ്വയം അവബോധം സ്വാഭാവികത ദർശനവും മൂല്യവും നയിക്കൽ ഹോളിസം അനുകമ്പ എന്നിവയിൽ നിന്നാണ് അവൾ ആരംഭിക്കുന്നത് വൈവിധ്യത്തിന്റെ ആഘോഷം ഫീൽഡ് സ്വാതന്ത്ര്യം വിനയം എന്തുകൊണ്ട് അടിസ്ഥാനപരമായി ചോദിക്കാനുള്ള പ്രവണത ചോദ്യങ്ങൾ പുനർരൂപകൽപ്പന ചെയ്യാനുള്ള കഴിവ് പ്രതികൂല സാഹചര്യങ്ങളുടെ ക്രിയാത്മകമായ ഉപയോഗം തൊഴിൽബോധം എന്നിവ ഇപ്പോൾ എല്ലാറ്റിനുമുപരിയായി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഈ ആത്മീയ മൂലധനം സൂചിപ്പിച്ചതുപോലെ ഉപയോഗിക്കുക ഉയർന്ന തലത്തിലുള്ള പ്രചോദനത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണമെന്ന് സോഹർ നിങ്ങൾ ഉയർന്ന തലത്തിലുള്ള പ്രചോദനത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ മിക്ക ലൌകിക പ്രശ്നങ്ങളും ജീവിതത്തിൽ വളരെ ലളിതമായ നിസ്സാരമായ കാര്യങ്ങളാൽ നമ്മൾ സാധാരണയായി തകർന്നുപോകുന്നു അവ എല്ലായിടത്തും വരുന്നു അതിനാൽ രചയിതാവ് നിർദ്ദേശിച്ചതുപോലെ ഒരു പ്രോജക്റ്റായി നിങ്ങൾക്ക് ജീവിതം നയിക്കാൻ കഴിയും പരാമർശിച്ചിരിക്കുന്ന 3 പ്രധാന അവകാശങ്ങളോടുള്ള ഏറ്റെടുക്കപ്പെട്ട സംവേദനക്ഷമത അതായത്ഃ ഒന്ന് നന്മയും മറ്റൊന്ന് സത്യവും സൌന്ദര്യവുമാണ് ഇപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട അടുത്ത ചോദ്യം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഇതിനെക്കുറിച്ച് വായിച്ചു നിങ്ങൾ ആരംഭിച്ചു നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി നിങ്ങൾ മികവ് പുലർത്താൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾ സ്വയം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് നിങ്ങളിൽ ഈ ആവശ്യ നേട്ട സ്വഭാവം ഉണ്ടെന്ന് അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങളിലുള്ള ഈ കാര്യങ്ങളെല്ലാം പുറത്തുകൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു അത് കെട്ടിപ്പടുക്കുന്നതിലൂടെ നിങ്ങൾ വളരെ സന്തോഷകരമായ സമാധാനപരമായ ജീവിതം നയിക്കുമോ വ്യക്തമായ ഉത്തരം isóìNo î കാരണം ജീവിതം നിങ്ങളുടെ ആന്തരിക കാമ്പ് കെട്ടിപ്പടുക്കുക മാത്രമല്ല മറിച്ച് ആ ആന്തരിക കാമ്പ് നിർമ്മിച്ചതിനുശേഷം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുമായി നിങ്ങൾ എന്തുചെയ്യാൻ പോകുന്നു കാരണം ജീവിതം നിങ്ങളിൽ ഉള്ള ഒന്നാണ് പക്ഷേ അത് സാധൂകരിക്കപ്പെടുന്നു അത് നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള നിരവധി ആളുകൾ അർത്ഥം കുറഞ്ഞത് ഉദ്ദേശ്യം കുറഞ്ഞത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒന്നാണ് എന്നാൽ അപ്പോൾ നിങ്ങൾ എങ്ങനെ ആ അർത്ഥത്തിൽ എത്തും ആ പൂർത്തീകരണത്തിൽ നിങ്ങൾ എങ്ങനെ എത്തിച്ചേരും അത് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ജനങ്ങളാണ് ഓർക്കുക തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ പരാജയമായാലും നിങ്ങളുടെ വിജയമായാലും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണ് നിങ്ങൾക്ക് സംഭാവന നൽകാൻ പോകുന്നത് ആ അർത്ഥത്തിൽ വളരെ അഭികാമ്യമായ ഈ സ്വഭാവസവിശേഷതകളെല്ലാം നിങ്ങൾ നേടിയെങ്കിലും സ്വയം യാഥാർത്ഥ്യമാക്കൽ നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങളുടെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ദിവസം എങ്ങനെ ആരംഭിക്കുന്നു ഒരു സംഘർഷവുമില്ലാതെയാണോ ദിവസം ആരംഭിക്കുന്നത് ഇല്ല ഒരു സംഘർഷവുമില്ലാതെ ആരംഭിക്കുന്നതോ അവസാനിക്കുന്നതോ പുരോഗമിക്കുന്നതോ ആയ ഒരു ദിവസം പോലുമില്ല വാസ്തവത്തിൽ വളരെ ചെറിയ സംഘട്ടനങ്ങളുണ്ട് തുടർന്ന് വലിയ സംഘട്ടനങ്ങളുണ്ട് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിലേക്കും നമ്മെ കൊണ്ടുപോകുന്ന സംഘർഷങ്ങൾ അത് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സംഘർഷങ്ങളും ചില സംഘർഷങ്ങളും ഉണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുകയും പിന്നീട് കനത്ത മഴ പെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു കുട എടുക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം തുടർന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ മഴ നിൽക്കാൻ കാത്തിരിക്കും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു ഇപ്പോൾ നിങ്ങളുടെ സ്കൂട്ടർ തകരാറിലായി അല്ലെങ്കിൽ കാർ തകരാറിലായി അതിനാൽ നിങ്ങൾ മെക്കാനിക്കിനെ വിളിക്കുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ അത് നന്നാക്കും ഇപ്പോൾ ഇവ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി നിങ്ങൾ എടുത്ത കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് താൽപ്പര്യമുള്ള സംഘർഷങ്ങൾ കാരണം ഉണ്ടാകുന്ന സംഘർഷമാണ് മനുഷ്യരുമായുള്ള നിങ്ങളുടെ ഇടപെടൽ ഇപ്പോൾ ആദ്യം ഞങ്ങൾ എങ്ങനെ സംഘർഷം നിർവചിക്കും എന്താണ് സംഘർഷം നിങ്ങൾ നിഘണ്ടുവിന്റെ നിർവചനങ്ങൾ നോക്കുകയാണെങ്കിൽ അവയിൽ ചിലതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി നിങ്ങൾ ഒരു സംഘർഷത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റുമുട്ടലിലേക്കോ വിയോജിപ്പിലേക്കോ മാത്രമാണ് വരുന്നതെന്ന് അത് പറയുന്നു നിങ്ങൾക്ക് ആരുടെയെങ്കിലും കാഴ്ചപ്പാടിനോട് യോജിക്കാൻ കഴിയില്ല അതിനാൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു സംഘർഷം എന്നാൽ വ്യത്യാസത്തിലോ എതിർപ്പിലോ പരസ്പരവിരുദ്ധമായിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് ഏറ്റുമുട്ടൽ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നതിൽ സംതൃപ്തരാകുക എന്നതും ഇതിനർത്ഥം പരസ്പരം പോരാടുക പ്രത്യേകിച്ച് നീണ്ട പോരാട്ടം ചിലപ്പോൾ കലഹങ്ങൾ അങ്ങനെ വീണ്ടും വളരെ ദുഃഖകരമായ സാഹചര്യവുമായി ഏറ്റുമുട്ടുന്നു സംഘർഷം എന്നാൽ തർക്കങ്ങൾ കലഹങ്ങൾ കക്ഷികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ എന്നിവയും അർത്ഥമാക്കുന്നു സംഘർഷം എന്നാൽ പ്രവർത്തനത്തിൻറെ വൈരുദ്ധ്യം എന്നർത്ഥം അതായത് പ്രവർത്തനം വളരെ യോജിപ്പോടെ നടക്കുന്നില്ല ദിശാബോധം വൈരുദ്ധ്യമുള്ള വികാരമോ പരിശ്രമമോ അനുഭവപ്പെടുക വൈരുദ്ധ്യം അല്ലെങ്കിൽ എതിർപ്പ് ആരോടെങ്കിലും വിദ്വേഷം ആശയങ്ങളോടുള്ള എതിർപ്പ് മറ്റുള്ളവരുടെ തത്വങ്ങൾ ആശയങ്ങളുടെ സംഘർഷം സംഘർഷം എന്നാൽ ഒരുമിച്ച് അടിക്കുന്ന കൂട്ടിയിടി എന്നും അർത്ഥമാക്കുന്നു ഇപ്പോൾ ഇവയിൽ നിങ്ങൾക്ക് വിയോജിപ്പ് വൈരുദ്ധ്യം തുടങ്ങിയ നിർവചനങ്ങൾ നോക്കാം വഴക്കുകൾ പിന്നെ ചിലപ്പോൾ വിയോജിപ്പ് വികാരത്തിൻറെ വൈരുദ്ധ്യമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ ജീവിതത്തിൽ സംഘർഷം ഒഴിവാക്കാൻ കഴിയും നിങ്ങൾക്ക് സംഘർഷങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുമോ വീണ്ടും വ്യക്തമായ ഉത്തരം ഇല്ല എന്നതാണ് കാരണം സംഘർഷം ജീവിതത്തിന്റെ വളരെ സാധാരണവും അംഗീകരിക്കപ്പെട്ടതും പ്രതീക്ഷിച്ചതും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗമാണ് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് സാധാരണ സംഘർഷങ്ങൾ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ആളുകൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നു എനിക്ക് എന്ത് തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകും അവർ ജാതക ചാനലുകൾ നോക്കുന്നു അവർ ജ്യോതിഷത്തിലേക്ക് നോക്കുന്നു ഇന്ന് എന്റെ ജീവിതത്തിൽ ഏതുതരം സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നും അത് പരിഹരിക്കാൻ എനിക്ക് കഴിയുമെന്നും മുൻകൂട്ടി അറിയാൻ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് ഇത് അവരുടെ ജീവിതത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഭാഗമാണെന്ന് ആളുകൾക്കറിയാം ഇപ്പോൾ എല്ലാവരും ദൈനംദിന ജീവിതത്തിൽ സംഘർഷങ്ങൾ നേരിടുന്നു വർഷത്തിൽ ഒരിക്കൽ ഒരു നീല ചന്ദ്രനിൽ ഒരിക്കൽ നിങ്ങൾക്ക് സംഘർഷം വരുമെന്ന് തോന്നുന്നില്ല എന്നാൽ സംഘർഷത്തെക്കുറിച്ചുള്ള അടുത്ത രസകരമായ കാര്യം വിട്ടുകൊടുക്കാൻ ആരും ഇല്ല എന്നതാണ് ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ദിവസേന സംഘർഷങ്ങൾ നേരിടുന്നു ഇത് വർഷത്തിൽ ഒരിക്കൽ ഒരു പതിറ്റാണ്ടിൽ ഒരിക്കൽ ഒരു നീല ചന്ദ്രനിൽ ഒരിക്കൽ ആരെയെങ്കിലും സന്ദർശിക്കുകയല്ല ഇല്ല ദൈനംദിന അടിസ്ഥാനത്തിൽ നാമെല്ലാവരും സംഘർഷങ്ങൾ അനുഭവിക്കുന്നു എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ സംഘർഷങ്ങളും പിന്നീട് വലിയ സംഘർഷങ്ങളുമുണ്ട് പിന്നെ മനുഷ്യ ബന്ധങ്ങളിൽ പോലും സംഘർഷം ഏതൊരു ബന്ധത്തിലും ആനുകാലിക സംഭവമായി സംഭവിക്കുന്നു അത് ഇടയ്ക്കിടെ വരുന്നു എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഭർത്താവും ഭാര്യയും എല്ലാ ദിവസവും പരസ്പരം കലഹിക്കുന്ന കേസുകളുണ്ട് ഇപ്പോൾ ഇത് വളരെ ചെറിയ നിസ്സാരമായ സംഘട്ടനമാണ് അത് അവിടെയും അവിടെയും വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടുന്നു എന്നാൽ ചിലപ്പോൾ തർക്കം പരസ്പരം വേർപിരിഞ്ഞ് ജീവിക്കുന്ന തലത്തിലേക്ക് നയിക്കുന്നു ഇപ്പോൾ ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വലിയ സംഘട്ടനമായി മാറുന്നു ഇപ്പോൾ ഒരു സംഘർഷത്തിന്റെ പോസിറ്റീവ് കാഴ്ചകൾ എന്തൊക്കെയാണ് ഒരു സംഘർഷം പരിഹരിച്ചുകഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമല്ലെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അത് ഒരു പ്രശ്നമാണ് കയ്യിൽ ഒരു സമ്മാനവുമായി നിങ്ങൾക്ക് വന്ന പ്രശ്നം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എതിർ മുൻഗണനകളും മൂല്യങ്ങളും മനസിലാക്കാനുള്ള അവസരമാണിത് സംഘർഷത്തിൽ മറ്റുള്ളവർ നിങ്ങളിൽ എന്താണ് വിലമതിക്കുന്നതെന്നും അവരുടെ മുൻഗണനകൾ എന്താണെന്നും നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ ആ ബന്ധത്തെ ശരിക്കും വിലമതിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തുചെയ്യും അവരുടെ മുൻഗണനകൾക്കനുസരിച്ച് നിങ്ങൾ പരിഷ്ക്കരിക്കാൻ ശ്രമിക്കും ഓർക്കുക പഠനം എന്നാൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുക എന്നതാണ് നിങ്ങളുടെ ചില പെരുമാറ്റ സവിശേഷതകൾ മറ്റേയാൾ അസ്വീകാര്യമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്ന വൈരുദ്ധ്യമുള്ള സാഹചര്യത്തിലേക്ക് നയിക്കും നിങ്ങൾ പരിഷ്ക്കരിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ പെരുമാറ്റം മാറുകയും അത് മറ്റൊരാൾക്ക് കൂടുതൽ സുഖകരമാവുകയും ചെയ്യും നിങ്ങളെ ഒരു സുഹൃത്തായി പങ്കാളിയായി സഹപ്രവർത്തകനായി അല്ലെങ്കിൽ കുടുംബ ശൃംഖലയിലെ ആരായും എളുപ്പത്തിൽ സ്വീകരിക്കാൻ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട സംഘർഷത്തിന്റെ അടുത്ത വശം ഇതാണ്ഃ എന്തുകൊണ്ടാണ് നമ്മൾ സംഘർഷം പരിഹരിക്കേണ്ടത് പിന്നെ സംഘർഷം പരിഹരിക്കുമ്പോൾ ആളുകൾ അത് എങ്ങനെ ചെയ്യും ഇപ്പോൾ സാധാരണയായി കുഴപ്പങ്ങൾ ഉണ്ടെന്ന് ആളുകൾ കരുതുന്നു തുടർന്ന് അത് വളരെ സൌഹാർദ്ദപരമായ രീതിയിലും യോജിച്ച രീതിയിലും പരിഹരിക്കാൻ ഉണ്ടോ ഇല്ല എല്ലായ്പ്പോഴും അല്ല സംഘർഷം വളരെ വിനാശകരമായ രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട് മറ്റുള്ളവർ അത് ക്രിയാത്മകമായി പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടെ ഇട്ട ചിത്രം നോക്കൂ സംഘർഷം ഒരു ആറ്റം ബോംബ് പോലെ പൊട്ടിത്തെറിക്കുകയും നിരവധി ജീവിതങ്ങളും ബന്ധങ്ങളും നശിപ്പിക്കുകയും ചെയ്യും എന്നാൽ വെറുതെ പ്രകോപിപ്പിക്കുന്നതിനുപകരം ഒരു സാഹചര്യത്തെ ശരിക്കും പ്രബുദ്ധമാക്കാൻ ഇത് ക്രിയാത്മകമായി ഉപയോഗിക്കാം ഒരു സാഹചര്യം ഉയർത്തുന്നതിനുപകരം നിങ്ങൾക്ക് അത് പ്രബുദ്ധമാക്കാനും ഉപയോഗിക്കാം നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവരാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് ഒരു സാഹചര്യത്തെ യുദ്ധമുഖം പോലുള്ള ഒരു യുദ്ധത്തിലേക്ക് നയിക്കാനും കഴിയും ആളുകൾക്ക് അവരുടെ ജീവനും ബന്ധങ്ങളും നഷ്ടപ്പെടുന്നു അതിനാൽ നിങ്ങൾ വിനാശകരമായ രീതിയിലോ സൃഷ്ടിപരമായ രീതിയിലോ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ വ്യക്തമായും നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കണമെങ്കിൽ നിങ്ങൾ സൃഷ്ടിപരമായ രീതിയിലായിരിക്കണം ഇപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾ സ്വാഭാവികമായും ഏതുതരം മോഡിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ശൈലിഃ നിങ്ങൾ വിനാശകരമായ വശത്താണോ അതോ സൃഷ്ടിപരമായ വശത്താണോ നിങ്ങൾ വിനാശകരമായ വശത്താണെങ്കിൽ ഞാൻ വിനാശകരമായ രണ്ട് വശങ്ങളും തിരിച്ചറിയാൻ പോകുന്നതുപോലെ അതുപോലെ സൃഷ്ടിപരവും നിങ്ങൾ വിനാശകരമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ സൃഷ്ടിപരമായ കാര്യങ്ങളിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങൾ ഇതിനകം സൃഷ്ടിപരമായ പക്ഷത്താണെങ്കിൽ ദയവായി ഈ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക ഇത് കൂടാതെ ആളുകൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട് ലോകത്തിന് നിങ്ങളെപ്പോലുള്ള ആളുകളെ ആവശ്യമാണ് ഇപ്പോൾ ആദ്യം ഈ വശം സംഘർഷങ്ങളുടെ കാര്യത്തിൽ ആളുകൾ വിനാശകരമായ മാനസികാവസ്ഥ എന്തുചെയ്യും വ്യക്തിത്വത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും അഭിപ്രായവ്യത്യാസമുണ്ടാകും അതിനാൽ നിങ്ങളുടെ സ്വഭാവം നല്ലതല്ലെന്ന് അവർ കണ്ടെത്തും നിങ്ങളുടെ വ്യക്തിത്വമാണ് അത് സൃഷ്ടിക്കുന്നത് ഇപ്പോൾ സൃഷ്ടിപരമായ വശത്തുള്ളവർ വ്യക്തിത്വത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ സ്വഭാവം അവർ ആശയങ്ങളെയും സമീപനങ്ങളെയും കുറിച്ചുള്ള വിയോജിപ്പുകളെ മാത്രം നോക്കുന്നു അത് വ്യക്തിയല്ലെന്ന് അവർക്കറിയാം പക്ഷേ ആശയങ്ങൾ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു ഈ വശംഃ വിനാശകരമായ മാനസികാവസ്ഥ വ്യക്തി വ്യക്തികളെ ആക്രമിക്കുന്നു ഇപ്പോൾ ക്രിയാത്മകമായ മാനസികാവസ്ഥയുള്ളവർ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളല്ലാത്ത വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ വശംഃ വിനാശകരമായ മാനസികാവസ്ഥ വ്യക്തിപരമായ ശത്രുത എന്നിവ അഭിപ്രായവ്യത്യാസത്താൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു അതേസമയം സൃഷ്ടിപരമായ വശത്ത് വ്യക്തി വ്യത്യാസങ്ങളെ മാനിക്കുകയും വ്യക്തിപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ വശത്ത്ഃ വിനാശകരമായ വശത്തുള്ള ഒരാൾ ആ വ്യക്തി ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ആ വ്യക്തി ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കാനോ ഗ്രൂപ്പിന്റെ ഐക്യത്തെ ബാധിക്കാതിരിക്കാനോ ശ്രമിക്കും ഇപ്പോൾ ക്രിയാത്മകമായ വശത്തുള്ളയാൾ ഗ്രൂപ്പ് പ്രകടനം ഉറപ്പാക്കുകയും ഗ്രൂപ്പിനെ പരസ്പരം സമന്വയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പോൾ എല്ലായ്പ്പോഴും കൂടുതൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ വിനാശകരമായ മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം വളരെ താഴ്ന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്നതിൽ അറിയപ്പെടുന്നവരാണ് ആത്മാഭിമാനം കുറവുള്ളവരും നെഗറ്റീവ് ചിന്തയുള്ളവരുമാണ് ശരി ഇപ്പോൾ ഈ വശംഃ സൃഷ്ടിപരമായ ആളുകൾ അവർ ഒരു ടീമിലാണെങ്കിൽ ഞാൻ ടീം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാനേജ്മെന്റ് ബിസിനസ്സ് സജ്ജീകരണത്തിലെ ടീം ആയിരിക്കണമെന്നില്ല മറിച്ച് ഒരു കുടുംബം പോലും നെറ്റ്വർക്ക് എന്നത് ഒരു ടീമാണ് അവർ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അവർ ഒരു ടീമിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ സൃഷ്ടിപരമായ മാനസികാവസ്ഥയുള്ള ആളുകൾ അവർ ഉയർന്ന പ്രകടനക്കാരാണ് അവർ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു വൈരുദ്ധ്യം അവർ യോജിച്ച സാഹചര്യങ്ങളിലും പരിഹാരങ്ങളിലും എത്താൻ ആഗ്രഹിക്കുന്നു തുടർന്ന് അവർ ഉയർന്ന പ്രകടനത്തിലേക്ക് പോകുന്നു ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സൃഷ്ടിപരമായ മാനസികാവസ്ഥയിലായിരിക്കണമെന്ന് സമ്മതിക്കുക ഒരു സംഘർഷം പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടത് എന്താണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് ആദ്യം എന്താണ് പറയേണ്ടതെന്ന് നമുക്ക് പറയാം എന്നിട്ട് എന്താണ് പറയേണ്ടതെന്ന് നോക്കാം രണ്ടും ഞാൻ അരികിൽ സൂക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് പറയേണ്ടത് ഞാൻ മാത്രമാണ് ശരിയായ വ്യക്തി എന്നും നിങ്ങൾ തെറ്റാണെന്നും ഞാൻ പറയുന്നത് ശരിയാണെന്നും നിങ്ങൾ പറയരുത് പകരം നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ ഞാൻ തെറ്റല്ല നിങ്ങൾ ഒരു പരിധി വരെ ശരിയാണ് ആ പരിധി വരെ ഞാൻ യോജിക്കുന്നു പക്ഷേ ദയവായി അത് മനസ്സിലാക്കുക ഇത് പറയാൻ ശ്രമിക്കുമ്പോൾ എനിക്കും തെറ്റില്ല ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പോലെയുള്ള ഒരു പ്രയോഗം നിങ്ങൾ പറയരുത് പക്ഷേ ഞാൻ അത് സ്വീകരിക്കില്ല എന്നാൽ ഇത് പരസ്പര വിരുദ്ധമാണ് ഇപ്പോൾ മറുവശത്ത് നിങ്ങൾ പറയുന്നത് ശരിയാണെന്നും മറ്റേയാൾ എന്താണെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ പറയുന്നതും അത്ര അസ്വീകാര്യമല്ല അതിനാൽ ഇബുട്ടെയ്ക്ക് പകരം ഇൻഡി ഒരു വ്യത്യാസം ഉണ്ടാക്കും പിന്നെ ഈ വശം ഈ സംഘർഷത്തിൽ ഞാൻ വിജയിക്കണം എന്ന് നിങ്ങൾ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത് ഈ പോരാട്ടത്തിന്റെ അവസാനത്തിൽ ഞാൻ വിജയിക്കണം പക്ഷേ നിങ്ങൾ തോൽക്കണം ഇത് ഒരു വിജയ പരാജയ സാഹചര്യമാണ് എന്നാൽ മറുവശത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടത് നിങ്ങൾ ചിന്തിക്കുകയും പറയുകയും വേണം നിങ്ങൾ ഒരു വിൻ വിൻ പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ സൌഹാർദ്ദപരവും സൌഹാർദ്ദപരവുമായ solution î കണ്ടെത്തും ഈ വശത്ത് മറ്റേയാൾ കുറ്റപ്പെടുത്തുകയും ഇങ്ങനെ പറയുകയും ചെയ്യുന്നുഃ നിങ്ങൾ ഉത്തരവാദികളാണ് ആരാണ് ഈ ആദ്യ സന്ദർഭത്തിൽ സൃഷ്ടിച്ചത് ഇപ്പോൾ മറുവശത്ത് സൃഷ്ടിപരമായ മാനസികാവസ്ഥ ഒരാൾ പറയുന്നു ഞാൻ സ്വന്തം ഉത്തരവാദിത്തമാണ് ഞാൻ sorry î ആണ് ഇപ്പോൾ ഈ വശം വ്യക്തി പറയുന്നു നിങ്ങൾ ക്ഷമ ചോദിക്കണം മറുവശം ക്രിയാത്മകമാണ് ഞാൻ ക്ഷമിക്കണം ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്തു ഞാൻ that î ന് ക്ഷമ ചോദിക്കുന്നു ഇപ്പോൾ ഈ വ്യക്തി പറയുന്നുഃ നിങ്ങൾ എല്ലായ്പ്പോഴും സംസാരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും കേൾക്കുന്നില്ല എല്ലായ്പ്പോഴും സംസാരിക്കുക നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ പക്ഷം വെക്കുക നിങ്ങൾ ഒരിക്കലും me î കേൾക്കില്ല പറയുന്നു ഞാൻ കേൾക്കുന്നു ദയവായി സംസാരിക്കുക നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ first î കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയരുത്ഃ എല്ലായ്പ്പോഴും ഇത് ചെയ്യുക നിങ്ങൾ ഒരിക്കലും എനിക്കുവേണ്ടി ഇത് ചെയ്യരുത് എല്ലായ്പ്പോഴും എന്നപോലെ വാക്കുകൾ ഒരിക്കലും എല്ലായ്പ്പോഴും ഒന്നുമില്ല ആശയവിനിമയത്തിൽ മനസ്സിനെ തടയുന്നവരാണ് ഇപ്പോൾ ഈ വശം അദ്ദേഹം പറയും പറയുന്നതിനുപകരം ഞാൻ എല്ലായ്പ്പോഴും ഇത് ചെയ്യുന്നു നിങ്ങൾ പറയും ഞാൻ അത് ചെയ്തുവെന്ന് നിങ്ങൾ കരുതുന്നു ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഞാൻ ആവർത്തിക്കില്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു അത് ചെയ്യില്ല സംഭവിച്ചാൽ ഈ കാര്യം future î ൽ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും അതിനാൽ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ എന്താണ് പറയേണ്ടത് എന്താണ് പറയേണ്ടത് എന്താണ് നിങ്ങൾ ഇതുവരെ പറയുന്നത് നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് സംഘർഷം വർദ്ധിക്കുന്നതിനാൽ അതിന്റെ തീവ്രത വർദ്ധിക്കുന്നു പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനോ പരിഹരിക്കുന്നതിനോ പകരം ഇല്ലാതാക്കുന്നതിനുപകരം സംഘർഷം വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സംഘർഷം ഇല്ലാതാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാതാക്കണമെങ്കിൽ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്തുചെയ്യണം ഇപ്പോൾ ഈ വശം നോക്കൂ നിങ്ങൾക്ക് വളരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിഷേധാത്മക മാനസികാവസ്ഥയുടെ ഭാഗമാണെങ്കിൽ ഇവ വർദ്ധിപ്പിക്കുന്നതിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടാതെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവയിൽ ചിലത് ചെയ്യുകയാണെങ്കിൽ അത് നിർത്താൻ ശ്രമിക്കുക തുടർന്ന് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയുന്ന വഴികൾ നോക്കുക കോപം കാണിക്കുക വാതിലിൽ മുട്ടുക വാതിലിൽ എന്തെങ്കിലും എറിയുക തുടങ്ങിയ ഏത് രൂപത്തിലും കോപം കാണിക്കുക ഒരാൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുമെന്ന് ആ വ്യക്തിയെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അടിക്കും എന്നെ അറിയിക്കുക നിങ്ങൾ ഈ ഓഫീസിൽ നിന്ന് പുറത്തുവരുമ്പോൾ എന്ത് സംഭവിക്കും എപ്പോൾ നിങ്ങൾ എന്തുചെയ്യുമെന്ന് എന്നെ അറിയിക്കുക നിങ്ങൾ ഗേറ്റിൽ നിന്ന് പുറത്തുവരിക വഴിയിൽ ഞാൻ നിങ്ങളെ അടിക്കും ഞാൻ നിങ്ങളെ അപമാനിക്കും ഞാൻ നിങ്ങളെ അപമാനിക്കും ഇപ്പോൾ ഈ വശത്ത് വ്യക്തിയെ ഇല്ലാതാക്കുന്നത് ശാന്തവും തണുത്തതുമാണ് മറ്റേയാൾ ശബ്ദം ഉയർത്തുമ്പോഴും അവൻ ശബ്ദം ഉയർത്തില്ല കാരണം നിങ്ങൾ ശബ്ദം ഉയർത്തുക അത് വീണ്ടും സ്ഥിതിഗതികൾ വഷളാക്കും അവൻ ശാന്തനായിരിക്കും ഭീഷണിപ്പെടുത്തിയാൽ ശബ്ദം ഉയർത്തുന്നതിനുപകരം താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കും അവൻ ശാന്തമായി താൻ പറയുന്നത് കേൾക്കുന്നു ഇപ്പോൾ ഈ വശം ആ വ്യക്തി അടിക്കുകയോ അടിക്കുകയോ വസ്തുക്കൾ എറിയുകയോ ചെയ്യുകയാണെങ്കിൽ മറ്റേയാൾ ശ്രമിക്കുന്നു അവന്റെ കോപം നിയന്ത്രണത്തിലാക്കുക അവന്റെ വെറുപ്പുളവാക്കുന്നതും ആവേശകരവുമായ പ്രവൃത്തി നിലനിർത്തുക അവൻ എറിയുന്നതിനുപകരം കാര്യങ്ങൾ അവന്റെ മേൽ തിരികെ എറിയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ അവൻ അത് നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നു ഈ വശത്ത് അവൻ നിലവിളിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നു മറുവശത്ത് അവൻ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും എന്നാൽ അത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അപമാനകരവും പരിഹസിക്കുന്നതുമായ അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിക്കും മറുവശത്ത് വ്യക്തി കഴിയുന്നത്ര സ്വീകാര്യനാകാൻ ശ്രമിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നു യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് പരിഹാരം എന്ന് അവനറിയാവുന്നതിനാൽ സന്തോഷത്തോടെ തുടരുക ഇപ്പോൾ ഈ വശം വ്യക്തി വളരെ കർക്കശക്കാരനാണ് അവൻ മാറാനോ വിട്ടുവീഴ്ച ചെയ്യാനോ വിസമ്മതിക്കുന്നു മറുവശത്ത് വ്യക്തി മാറാനും വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാണ് ഈ വശം ചർച്ച ചെയ്യാനും പരിഹാരത്തിലെത്താനും വ്യക്തി വിസമ്മതിക്കുകയാണ് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവൻ എല്ലായ്പ്പോഴും ഒരു വിൻ വിൻ പരിഹാരം തേടുന്നു ചിലപ്പോൾ പ്രകോപിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പ്രതിഷേധിക്കും ഞാൻ കേൾക്കുന്നില്ല എന്ന് പറയും നിങ്ങളോട് ഞാൻ പരസ്യമായി എതിർക്കുന്നു അല്ലെങ്കിൽ വളരെ അക്രമാസക്തമായ രീതിയിൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അവർ മസ്തിഷ്കപ്രക്ഷോഭം നടത്താനും തുടർന്ന് സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരത്തിലെത്താനും ശ്രമിക്കുന്ന മുറി അതേസമയം മറുവശത്ത് സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവർ അത് പരിഹരിക്കും തർക്കം പരിഹരിക്കുന്നതുവരെ ക്ഷമയോടെ തുടരുക നിങ്ങൾ തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പക്ഷമാണെന്ന് കണ്ടെത്തുകയോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ പ്രശ്നത്തിൻ്റെ ഭാഗമാണോ അതോ പരിഹാരത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ സംഘർഷത്തിന്റെ സ്രഷ്ടാവാണോ അതോ നിങ്ങൾ സംഘർഷം നശിപ്പിക്കുന്നതും പരിഹരിക്കുന്നതുമായിത്തീരാൻ ആഗ്രഹിക്കുന്നുണ്ടോ സാഹചര്യം വളരെ യോജിച്ച തലത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് സംഘർഷങ്ങൾ പരിഹരിക്കുന്നത് കുറഞ്ഞത് രണ്ട് കാര്യങ്ങളെങ്കിലും ഒരു കാര്യമെങ്കിലും ഞാൻ പിന്നീട് കൂട്ടിച്ചേർക്കും ചർച്ചകൾ മധ്യസ്ഥതഃ ചർച്ചകൾ സംസാരിക്കുകയും പിന്നീട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നതുപോലെയാണ് സംസാരിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പരിഹാരത്തിലെത്തുകയും തുടർന്ന് ഗുണങ്ങളും ദോഷങ്ങളും തിരിച്ചറിയുകയും ചെയ്യുന്നു വീണ്ടും മധ്യസ്ഥത രണ്ട് കക്ഷികൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അതേ സമയം നിങ്ങൾ ശരിക്കും ഇത് ക്രമീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇരുവശത്തേക്കും നോക്കണം ഇതിനെക്കുറിച്ച് അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കും നിങ്ങൾക്ക് ഇവ രണ്ടും എങ്ങനെ നോക്കാം എന്ന് പക്ഷം ചേരുകയും തീരുമാനിക്കുകയും ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഈ വിജയ മനോഭാവം ഉണ്ടായിരിക്കണം ഇപ്പോൾ ഞാൻ പറഞ്ഞു മൂന്നാമത്തേതും ഉണ്ട് അതായത് മദ്ധ്യസ്ഥത ഈ കാര്യങ്ങൾ സംഘർഷ പരിഹാരത്തിന് മൂന്ന് തലങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും സംഘർഷ പരിഹാരത്തിന്റെ മൂന്ന് തലങ്ങൾ എന്തൊക്കെയാണ് വേഗത്തിൽ ആദ്യത്തേത് ചർച്ചയാണ് അതായത് രണ്ട് വ്യക്തികൾ ഇരുന്ന് വ്യായാമം ചെയ്യുന്നു ചർച്ചകളിലൂടെയും ആശയക്കുഴപ്പത്തിലൂടെയും മാത്രമുള്ള ഒരു ഒത്തുതീർപ്പ് രണ്ടാമത്തേത് മധ്യസ്ഥതയാണ് അവിടെ പരിഹാരം കണ്ടെത്താൻ മൂന്നാം കക്ഷി വ്യക്തികളെ സഹായിക്കുന്നു മൂന്നാമത്തേത് മദ്ധ്യസ്ഥതയാണ് ഇപ്പോൾ ഇതിൽ ഒരു മൂന്നാം കക്ഷിയും ഉൾപ്പെടുന്നു ചർച്ചകൾ മധ്യസ്ഥത പരാജയപ്പെടുമ്പോൾ ഇത് സ്ഥാപിക്കപ്പെടുന്നു ഇപ്പോൾ മധ്യസ്ഥതയിൽ സാധാരണയായി മൂന്നാം കക്ഷി നിങ്ങൾക്ക് പരിചിതമാണ് പക്ഷേ വ്യവഹാരത്തിൽ യഥാർത്ഥത്തിൽ മൂന്നാം കക്ഷി ചിലപ്പോൾ ജഡ്ജിയെപ്പോലെയുള്ള ഒരാളായി മാറുന്നു ഉദാഹരണത്തിന് നിങ്ങൾ എടുക്കുന്ന തരത്തിലുള്ള കോടതി തുടർന്ന് ഈ ജഡ്ജി ഉണ്ട് അക്ഷരാർത്ഥത്തിൽ ഇരുന്ന് നിങ്ങൾക്കായി പ്രശ്നം പരിഹരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അജ്ഞാതനായ ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ നിങ്ങൾ എല്ലാവരും ഈ വ്യക്തിയുടെ അടുത്തേക്ക് പോകുമെന്ന് സമ്മതിക്കുന്നു ആ വ്യക്തി നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് സ്വീകരിക്കും ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു വിൻ വിൻ പ്രശ്നപരിഹാരം ഉപയോഗിച്ച് ബന്ധങ്ങൾ സമന്വയിപ്പിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഇത് ആവശ്യമായി വരുന്നത് നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാൻ കഴിയും വീണ്ടും അടുത്ത പ്രഭാഷണത്തിൽ ചില ഉദാഹരണങ്ങൾ നൽകാൻ ഞാൻ ശ്രമിക്കും എന്നാൽ ഈ സമയത്ത് നിങ്ങൾ വിജയത്തെക്കുറിച്ചോ തോൽവിയെക്കുറിച്ചോ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ആരെയെങ്കിലും വിജയിക്കും ഞാൻ തോൽക്കുകയോ തോൽക്കുകയോ ചെയ്യും അങ്ങനെ ഞാൻ ആരെയെങ്കിലും വിജയിക്കാൻ അനുവദിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ ബന്ധത്തെ സമന്വയിപ്പിക്കുന്നില്ല ഇത് നോക്കൂ സംഘർഷങ്ങളില്ലാതെ ഒരു ജീവിതവും ജീവിക്കാൻ കഴിയില്ല എല്ലാ ജീവിതത്തിലും സംഘർഷങ്ങൾ ഉണ്ടാകും ഓരോ ബന്ധവും ഏതെങ്കിലും ഘട്ടത്തിൽ പരസ്പരവിരുദ്ധമായ സാഹചര്യങ്ങൾ നേരിടേണ്ടിവരും ബന്ധം എത്ര നല്ലതാണെങ്കിലും നിങ്ങൾ കഥയിൽ വായിക്കുന്നതുപോലെ ആളുകൾ സന്തോഷത്തോടെ ആഗ്രഹിക്കാൻ ഒരു വഴിയുമില്ല സംഘർഷങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും പിന്നെ അവിടെയും അവിടെയും സന്തോഷം എങ്ങനെ തിരികെ കൊണ്ടുവരണമെന്നും മാത്രമാണ് അവർ പഠിച്ചത് സംഘർഷങ്ങൾ കാരണം അത് അപ്രത്യക്ഷമാകുന്നതായി തോന്നുന്ന എല്ലായിടത്തും അവർ സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർ വളരെ നല്ല സംഘർഷ പരിഹാര കഴിവുകൾ വികസിപ്പിച്ച ആളുകളാണ് ഒരുപക്ഷേ അതുകൊണ്ടാണ് അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നത് പക്ഷേ സംഘർഷങ്ങൾ പരിഹരിക്കാതെ പിന്നെ നമുക്ക് വിൻ വിൻ ഉപയോഗിച്ച് ആന്തരികവും വ്യക്തിപരവുമായ സംഘർഷങ്ങൾ പരിഹരിക്കാൻ കഴിയുമ്പോൾ പ്രശ്നപരിഹാരം അത് ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യാത്തപ്പോൾ അത് അതിനെ നശിപ്പിക്കുന്നു ആത്യന്തികമായി ആ ബന്ധങ്ങളാണ് നിങ്ങൾക്ക് വിജയം കൊണ്ടുവരാൻ പോകുന്നത് അല്ലെങ്കിൽ അത് കൊണ്ടുവരാനും പോകുന്നു നിങ്ങൾ നിങ്ങളുടെ വിജയത്തിൽ നിന്ന് താഴുകയും പിന്നീട് നിങ്ങൾ പരാജയം നൽകുകയും ചെയ്യുന്നു വിൻ വിൻ പ്രശ്നപരിഹാരം ഉപയോഗിച്ച് ബന്ധം സമന്വയിപ്പിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനമാണ് യഥാർത്ഥത്തിൽ നൽകുന്ന വളരെ പ്രശസ്തമായ ഉദ്ധരണിയോടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സംഘർഷങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് വളരെ വെളിപ്പെടുത്തുന്ന ഒരു ആശയം അരാജകത്വത്തിൻ്റെയോ സംഘർഷത്തിൻ്റെയോ അഭാവത്തിൽ നിന്നാണ് സമാധാനം ഉണ്ടാകുന്നതെന്ന് സാധാരണയായി ആളുകൾ കരുതുന്നു എന്നാൽ ഈ ഉദ്ധരണി അനുസരിച്ച് അത് പറയുന്നു സമാധാനം വരുന്നത് സംഘട്ടനങ്ങളുടെ അഭാവത്തിൽ നിന്നല്ല മറിച്ച് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ it î നെ നേരിടാനുള്ള കഴിവ് രൂപപ്പെടുത്തുക സമാധാനം ജീവിതത്തിൽ ഒരു സംഘർഷവും ഉണ്ടാകില്ലെന്ന് ചിന്തിക്കുന്നതിലൂടെ അത് സമാധാനമല്ല എന്നാൽ ഈ സംഘർഷങ്ങൾ വളരെ സമാധാനപരമായി പരിഹരിക്കാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾ വികസിപ്പിക്കണം അപ്പോൾ നിങ്ങൾക്ക് യോജിച്ച ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയും ഇപ്പോൾ ഈ ചിന്തയോടെ ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ വരാനിരിക്കുന്ന പ്രഭാഷണത്തിൽ ഞാൻ വ്യക്തിബന്ധങ്ങൾ പരസ്പരബന്ധങ്ങൾ എന്നിവ എങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു ഈ വിൻ വിൻ സാഹചര്യം ഉപയോഗിച്ച് വളരെ സൌഹാർദ്ദപരമായ രീതിയിൽ സംഘർഷങ്ങൾ അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടുമുട്ടും അതുവരെ ഞാൻ വിട പറയുന്നു